എല്ലാവർക്കും നമസ്കാരം PSOSM കോഴ്സിനായുള്ള ആദ്യ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഫേസ്ബുക്കിൽ നിന്നും ട്വിറ്ററിൽ നിന്നും ഡാറ്റ ശേഖരിക്കുന്നതിന് നമ്മൾ സിസ്റ്റം എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്ന് പഠിക്കും ഈ കോഴ്സിൽ നമ്മൾ നോക്കുന്ന സോഷ്യൽ നെറ്റ്വർക്കുകളുടെ ചില അടിസ്ഥാനകാര്യങ്ങ ളിൽ കൂടി നിങ്ങൾ കടന്നുപോയിരിക്കണം ഇപ്പോൾ ഈ ട്യൂട്ടോറിയൽ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുന്നതിന് നിങ്ങളുടെ സിസ്റ്റം എങ്ങനെ തയ്യാറാക്കാമെന്ന് നിങ്ങളെ നയിക്കും ഇത് ചെയ്യാനുള്ള ഏറ്റവും സൌകര്യപ്രദമായ മാർഗ്ഗം ലിനക്സ് ഉപയോഗിക്കുക എന്നതാണ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ലിനക്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പഠിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയും നമ്മളുടെ എല്ലാ ഡാറ്റ ശേഖരണ ജോലികളും നിർവഹിക്കുന്നതിന് മുഴുവൻ കോഴ്സിനും പൈത്തൺ പ്രോഗ്രാമിംഗ് ഭാഷ ഉപയോഗിക്കുകയും ചെയ്യും ചില അടിസ്ഥാന പൈത്തൺ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ പഠിക്കും അത് കോഴ്സ് സമയത്ത് ഡാറ്റ ശേഖരിക്കാനും നിങ്ങൾക്ക് ഇത് എളുപ്പമാക്കാനും സഹായിക്കും ഇപ്പോൾ ഈ ട്യൂട്ടോറിയലിൽ ഞാൻ ഒരു വെർച്വൽ പരിതസ്ഥിതിയിൽ ഉബുണ്ടു പതിപ്പ് 14 04 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിച്ചുതരാം നിങ്ങളുടെ കമ്പ്യൂട്ടറുകളിൽ ഇതിനകം ഉബുണ്ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം ആരംഭിക്കുന്നതിന് നിങ്ങളുടെ പക്കൽ രണ്ട് സോഫ്റ്റ്വെയർ ആവശ്യമാണ് പതിപ്പ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന ആദ്യ സോഫ്റ്റ്വെയർ രണ്ടാമത്തേത് ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഞങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെ ആശ്രയിക്കുന്നില്ല നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാലും വിൻഡോസോ മാക്കോ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയണം നിങ്ങൾ ഇതിനകം ലിനക്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ ഒഴിവാക്കാവുന്നതാണ് നമുക്ക് വെർച്വൽ ബോക്സ് ഡൌൺലോഡ് ചെയ്യാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വെർച്വൽ ബോക്സ് ഡോട്ട് ഓർഗിലേക്ക് പോകുക എന്നതാണ് നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഡൌൺലോഡ് ബട്ടൺ കാണാം ബട്ടണിൽ ക്ലിക്കുചെയ്യുക അത് ഡൌൺലോഡ് ചെയ്യാൻ വെർച്വൽ ബോക്സിന്റെ വ്യത്യസ്ത പതിപ്പുകൾ ഉള്ള പേജിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും ഇപ്പോൾ വിൻഡോസിനും OS X നുള്ള എല്ലാത്തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്കും ഒന്നിലധികം പതിപ്പുകൾ ഇവിടെയുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒന്ന് ഡൌൺലോഡ് ചെയ്യുക ഞാൻ ഈ സോഫ്റ്റ്വെയർ മാക്കിൽ പ്രവർത്തിപ്പിക്കും അതിനാൽ ഞാൻ മാക് പതിപ്പ് ഡൌൺലോഡ് ചെയ്യും നിങ്ങൾക്കൊപ്പം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡൌൺലോഡ് ചെയ്യണം ഗൂഗിൾ തുറന്ന് ഉബുണ്ടു 14 04 എന്ന് ടൈപ്പ് ചെയ്യുക നമ്മൾ ഈ പതിപ്പ് ഉപയോഗിക്കുന്നു കാരണം ഇത് വളരെ വ്യാപകമാണ് ഇതിന് നല്ല പിന്തുണയുണ്ട് 16 തികച്ചും പുതിയതാണ് അതിനാൽ ഇതിനകം ഉപയോഗിക്കുന്ന എന്തെങ്കിലും നമ്മൾ പിടിക്കും ഇപ്പോൾ വീണ്ടും ഇവിടെ ചില പതിപ്പുകൾ ഉണ്ട് ഡെസ്ക്ടോപ്പ് പതിപ്പും സെർവർ പതിപ്പുകളും നമ്മൾ ഡെസ്ക്ടോപ്പ് പതിപ്പ് ഉപയോഗിക്കും രണ്ടാമതായി 64 ബിറ്റ് ഒന്ന് ഇത് 1 ജിബി സോഫ്റ്റ്വെയറിനെക്കുറിച്ചാണ് ഞാൻ ഇത് ഇതിനകം ഡൌൺലോഡ് ചെയ്തു അതിനാൽ ഞാൻ ഡൌൺലോഡ് ഭാഗം ഒഴിവാക്കും ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് സോഫ്റ്റ്വെയറുകളും ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുക ഏത് പ്ലാറ്റ്ഫോമിലും വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ എളുപ്പമാണ് നിങ്ങൾ ഫയൽ തുറക്കുക നിങ്ങൾ പാക്കേജ് ഇൻസ്റ്റാളർ കാണും നിങ്ങൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇത് ഒരു വിൻഡോ കാണിക്കും നിങ്ങൾ കുറച്ച് തവണ തുടരുക ക്ലിക്കുചെയ്യുക സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലം അത് ചോദിക്കും അതിനാൽ ഈ സിസ്റ്റത്തിലെ എല്ലാ ഉപയോക്താക്കൾക്കും ഞങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യും നിങ്ങൾ എല്ലാ ഉപയോക്താക്കളിലും ക്ലിക്കുചെയ്യുക നിങ്ങൾ ഇൻസ്റ്റാൾ ക്ലിക്കുചെയ്യുക ഇത് ഒരു അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് ചോദിക്കും നിങ്ങളുടെ പാസ്വേഡ് ടൈപ് ചെയ്യുക എന്റർ അമർത്തുക അതാണ് നിങ്ങൾക്ക് വേണ്ടത് ഇൻസ്റ്റാളേഷൻ പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനുകളിൽ വെർച്വൽ ബോക്സ് കാണും നിങ്ങളുടെ ആപ്ലിക്കേഷനുകളിലേക്ക് പോകുക അതിൽ ക്ലിക്ക് ചെയ്യുക വെർച്വൽ ബോക്സ് സോഫ്റ്റ്വെയർ തുറക്കണം അത് തുറന്നുകഴിഞ്ഞാൽ നിങ്ങൾ പുതിയതിൽ ക്ലിക്കുചെയ്യുക ഒരു പുതിയ വെർച്വൽ പരിസ്ഥിതി സൃഷ്ടിക്കാൻ ഇത് നിങ്ങളോട് ഒരു പേര് ചോദിക്കും നിങ്ങൾ ഉബുണ്ടു ഇടണം അത് ഇതിനകം ലിനക്സ് തിരഞ്ഞെടുക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന പതിപ്പ് ഉബുണ്ടു 64 ബിറ്റ് ആണ് അതിനു ശേഷം നിങ്ങൾ 'തുടരുക' അമർത്തുക വെർച്വൽ മെഷീനിൽ നിങ്ങൾക്ക് എത്ര റാം വേണമെന്ന് ഇഷ്ടാനുസൃതമാക്കാൻ കഴിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉബുണ്ടുവിന് സാധാരണയായി മതിയായ 1 GB നമ്മൾ ഉപയോഗിക്കും ഇപ്പോൾ ഈ വെർച്വൽ മെഷീനിനായി നിങ്ങൾക്ക് കുറച്ച് ഹാർഡ് ഡിസ്ക് സ്ഥലവും ആവശ്യമാണ് അതിനാൽ ടിക്ക് ചെയ്ത സ്ഥിരസ്ഥിതികളിൽ ഡീഫോൾട് നിങ്ങൾ ക്ലിക്കുചെയ്യുക ഞങ്ങൾ ഇപ്പോൾ ഒരു വെർച്വൽ ഹാർഡ് ഡ്രൈവ് സൃഷ്ടിക്കുന്നു അതിനാൽ നിങ്ങൾ സൃഷ്ടിക്കുക ക്ലിക്കുചെയ്യുമ്പോൾ അത് നിങ്ങളോട് ഒരു ഫോർമാറ്റ് ആവശ്യപ്പെടും ഇത് ഡീഫോൾട് ആയിരിക്കട്ടെ ഡീഫോൾട് ആയി തിരഞ്ഞെടുത്ത വെർച്വൽ ബോക്സ് ഡിസ്ക് ഇമേജ് നമ്മൾ ഉപയോഗിക്കും നിങ്ങൾ 'തുടരുക' ക്ലിക്കുചെയ്യുക ഈ ഡിസ്ക് ശരിയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നത് മറ്റൊരു ഓപ്ഷൻ നൽകും നിശ്ചിത വലുപ്പം അല്ലെങ്കിൽ ചലനാത്മകമായി അനുവദിച്ചത് നിങ്ങളുടെ ഹാർഡ് ഡ്രൈവ് ഉപയോഗിച്ച് നിങ്ങൾ ശരിക്കും കളിക്കുന്നില്ലെങ്കിൽ ഇത് സാധാരണയായി പ്രശ്നമല്ല അതിനാൽ നമ്മൾ അത് സ്ഥിര മൂല്യത്തിൽ ഡീഫോൾട് സജ്ജമാക്കും അടുത്തതായി നിങ്ങളുടെ വെർച്വൽ ഇമേജ് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫോൾഡർ അത് നിങ്ങളോട് ആവശ്യപ്പെടും വീണ്ടും ഇത് ഡീഫോൾട് ആകാൻ നമ്മൾ അനുവദിക്കും ഈ ഡയലോഗ് ബോക്സ് വെർച്വൽ മെഷീനുകൾക്ക് നിങ്ങൾക്ക് ഏത് വലുപ്പത്തിലുള്ള ഹാർഡ് ഡിസ്ക് ബേസ് വേണമെന്ന് ആവശ്യപ്പെടുന്നു 8 GB സാധാരണയായി നല്ലതാണ് കാരണം നമ്മൾ ചില പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് കാരണം കുറച്ച് സ്ഥലം എടുക്കുകയും ചെയ്യും തീർച്ചയായും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ കഴിയും ഇത് ചെയ്തുകഴിഞ്ഞാൽ വെർച്വൽ മെഷീൻ സൃഷ്ടിച്ച് അവസാനത്തേത് പ്രവർത്തിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും മൂന്നാമത്തേ വിൻഡോയിൽ ഇപ്പോൾ നിങ്ങളുടെ വെർച്വൽ മെഷീനിൽ പ്രവർത്തിപ്പിക്കുന്നതിനുമുമ്പ് നമ്മൾ ക്രമീകരണങ്ങൾ പരിശോധിക്കും ഇന്റർനെറ്റിൽ നിന്ന് പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതിനാൽ നിങ്ങളുടെ വെർച്വൽ മെഷീനിലാണ് ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ ക്രമീകരണങ്ങളിൽ ക്ലിക്കുചെയ്ത് നെറ്റ്വർക്കിലേക്ക് പോകുന്നു ഈ നെറ്റ്വർക്ക് ഭാഗത്ത് നെറ്റ്വർക്ക് അഡാപ്റ്റർ പ്രവർത്തനക്ഷമമാക്കുക എന്ന് പറയുന്ന ഈ ചെക്ക് ബോക്സ് നിങ്ങൾ ഉറപ്പുവരുത്തുക അറ്റാച്ചുചെയ്യുക എന്ന് പറയുന്ന ഡ്രോപ്പ് ബോക്സിൽ NAT തിരഞ്ഞെടുക്കുക നിങ്ങൾ ശരി ക്ലിക്കുചെയ്യുക തുടർന്ന് 'സ്റ്റാർട്ട്' ക്ലിക്കുചെയ്യുക ഇപ്പോൾ നിങ്ങൾ 'സ്റ്റാർട്ട്' ക്ലിക്കുചെയ്യുമ്പോൾ വെർച്വൽ മെഷീൻ പ്രവർത്തിക്കാൻ വെർച്വൽ മെഷീൻ നിങ്ങൾക്കാവശ്യമായ ഒരു ചിത്രം ആവശ്യപ്പെടും ഇപ്പോൾ ഓർക്കുക നമ്മൾ ഇപ്പോൾ ഡൌൺലോഡ് ചെയ്ത ഉബുണ്ടു അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കാൻ വെർച്വൽ മെഷീനിനോട് നമ്മൾ നിർദ്ദേശിച്ചിട്ടില്ല നമ്മൾ അതിന് പേര് നൽകി ഇപ്പോൾ നമ്മൾ ഡൌൺലോഡ് ചെയ്ത ചിത്രം നൽകാൻ സമയമായി അതിനാൽ നിങ്ങൾ വലതുവശത്തുള്ള ഫോൾഡറിൽ ക്ലിക്കുചെയ്യുക നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഇമേജ് ഫയൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ അത് നൽകും നമ്മൾ ഇപ്പോൾ ഡൌൺലോഡ് ചെയ്ത ഉബുണ്ടു 14 04 ISO നിങ്ങൾ തിരഞ്ഞെടുത്ത് ആരംഭിക്കുക ക്ലിക്കുചെയ്യുക ഡീഫോൾട് സ്ക്രീനിൽ ആദ്യ സ്ക്രീൻ ഭാഷ തിരഞ്ഞെടുക്കുന്നതിനാണ് നിങ്ങൾ ഇംഗ്ലീഷ് തിരഞ്ഞെടുത്ത് എന്റർ അമർത്തുക ഇപ്പോൾ നമ്മൾ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമ്മൾ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാൻ എന്റർ അമർത്തുക ഇപ്പോൾ നിങ്ങൾ ഈ വെർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വെർച്വൽ മെഷീൻ പരിതസ്ഥിതിയിലാണ് ഈ സന്ദേശങ്ങൾ വിൻഡോയുടെ മുകളിൽ വരുന്നത് നിങ്ങൾ കാണും ഈ സന്ദേശങ്ങളെല്ലാം ഒന്നൊന്നായി റദ്ദാക്കുക വെർച്വൽ മെഷീൻ നിങ്ങളുടെ കീബോർഡും മൌസ് പോയിന്ററും കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു തരം സമയമെടുക്കുന്ന ജോലിയാണ് ഇതിന് ഏകദേശം 30 മിനിറ്റ് എടുക്കും അതിനാൽ നമ്മൾ പ്രധാന ഓപ്ഷനുകളിലേക്ക് പോകും ബാക്കിയുള്ളവ ഫയലുകൾ പകർത്താൻ കാത്തിരിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള സാധാരണ രീതിയാണിത് ഇപ്പോൾ വീണ്ടും ഒരു കൂട്ടം ഡീഫോൾട് ഓപ്ഷനുകൾ നിങ്ങൾ ഇംഗ്ലീഷ് തിരഞ്ഞെടുത്ത് 'തുടരുക' അമർത്തുക നമ്മൾ ഇതിനകം ഡീഫോൾട്സ് സജ്ജമാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് പവർ സ്രോതസ്സിൽ പ്ലഗ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ മികച്ച ഫലങ്ങൾക്കായി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഈ പേജ് നിങ്ങളോട് പറയും ഈ വെർച്വൽ മെഷീനിനായി നമ്മൾ ഇതിനകം 8 GB സ്ഥലം സജ്ജമാക്കി ഇന്റർനെറ്റ് കണക്റ്റുചെയ്തു ഇപ്പോൾ നമ്മളുടെ ജോലികൾക്കായി നമ്മൾ അധിക അപ്ഡേറ്റുകളോ മൂന്നാം കക്ഷി സോഫ്റ്റ്വെയറോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല അതിനാൽ നമ്മൾ ഈ ബോക്സുകൾ പരിശോധിക്കാതെ വിടുകയും 'തുടരുക' ക്ലിക്കുചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ ഭാഗം അല്പം സങ്കീർണ്ണമാണ് അതിനാൽ നിങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കുക ഇപ്പോൾ ഈ ഓപ്ഷനുകളിൽ മറ്റെന്തെങ്കിലും ക്ലിക്കുചെയ്ത് 'നെക്സ്റ്റ്' ക്ലിക്കുചെയ്യുക ഈ പേജിൽ പുതിയ പാർട്ടീഷൻ ടേബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കാണാം നെക്സ്റ്റ് ക്ലിക്കുചെയ്യുക നമ്മൾ വെർച്വൽ മെഷീൻ അനുവദിച്ച 8 GB വലുപ്പമുള്ള സ്വതന്ത്ര ഇടം നിങ്ങൾ കാണും ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫ്രീ സ്പേസ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇടതുവശത്തുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സ്വാപ്പ് സ്പേസ് എന്ന് വിളിക്കപ്പെടുന്ന 1 ജിബി പാർട്ടീഷൻ ആയിരിക്കും നമ്മൾ ആദ്യം സൃഷ്ടിക്കുന്ന പാർട്ടീഷൻ ഈ സ്വാപ്പ് സ്പേസ് അടിസ്ഥാനപരമായി നമ്മൾ വെർച്വൽ മെഷീൻ അനുവദിച്ച അതേ വലുപ്പത്തിലുള്ള റാം ആണ് അതിനാൽ നമ്മൾ വലുപ്പം 1024 ആയി മാറ്റുകയും ഡ്രോപ്പ് ഡൌൺ മെനുവിൽ നിന്ന് സെക്ഷനായി ഉപയോഗിക്കുകയും ചെയ്യുക നമ്മൾ സ്വാപ്പ് ഏരിയ തിരഞ്ഞെടുത്ത് 'ഓക്കേ' ക്ലിക്കുചെയ്യും നിങ്ങൾ ടൈപ്പ് കാണുന്നുവെങ്കിൽ നമ്മൾക്ക് ഇതിനകം 1023 MB സ്വാപ്പ് അനുവദിച്ചിട്ടുണ്ട് ശേഷിക്കുന്ന സൌജന്യ സ്ഥലത്തിനായി നിങ്ങൾ ഈ സൌജന്യ സ്ഥലം തിരഞ്ഞെടുത്ത് വീണ്ടും പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക Ext 4 ജേർണലിംഗ് ഫയൽ സിസ്റ്റമായി ഉപയോഗിക്കുന്നതിന് സെക്ഷനായി ഉപയോഗിക്കുക മൌണ്ട് പോയിന്റ് ഡ്രോപ്പ് ഡൌൺ സ്ലാഷ് തിരഞ്ഞെടുത്ത് 'ശരി' ക്ലിക്കുചെയ്യുക ഇപ്പോൾ നിങ്ങൾ രണ്ട് പാർട്ടീഷനുകൾ വിജയകരമായി സൃഷ്ടിച്ചു എക്സ്റ്റ് 4 ടൈപ്പ് ഉള്ള ഉപകരണം തിരഞ്ഞെടുക്കുക ഫോർമാറ്റ് ചെക്ക് ബോക്സ് ഇതിനകം ടിക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും ഇപ്പോൾ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ സങ്കീർണ്ണമായ ഭാഗം നമ്മൾ ഏറെക്കുറെ പൂർത്തിയാക്കി അടുത്ത ഘട്ടം നിങ്ങളുടെ സമയ മേഖല തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഇത് യാന്ത്രികമായി നിങ്ങളുടെ സമയമേഖല കൊൽക്കത്ത ആണെന്ന് കണ്ടെത്തും നമ്മൾ 'തുടരുക' ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള കീബോർഡ് തിരഞ്ഞെടുക്കാൻ അത് നിങ്ങളോട് ആവശ്യപ്പെടും നമ്മൾ അത് ഇംഗ്ലീഷ് യുഎസ് ആയി വിടുന്നു ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ പേര് നിങ്ങൾ കീ ഇൻ ചെയ്യേണ്ടത് ഇവിടെയാണ് ഈ ഉദാഹരണത്തിനായി ഞാൻ എന്റെ പേര് ഉപയോഗിക്കും നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ പേരും ഉപയോക്തൃനാമവും ഇതിനകം തിരഞ്ഞെടുക്കും ഒരു പാസ്വേഡ് തിരഞ്ഞെടുത്ത് 'തുടരുക' ക്ലിക്കുചെയ്യുക എന്നതാണ് അവശേഷിക്കുന്നത് ഇനി നമ്മൾ കുറച്ചു നേരം കാത്തിരിക്കുന്നു ഇപ്പോൾ ഇവിടെ നിന്നുള്ള ഫയലുകൾ പകർത്തുന്നതിന് ഈ മുഴുവൻ പ്രക്രിയയും ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും നമ്മൾ ഈ കാത്തിരിപ്പ് ഭാഗം ഒഴിവാക്കുകയും അടുത്ത നടപടി സ്വീകരിക്കേണ്ടിടത്തേക്ക് പോകുകയും ചെയ്യും എല്ലാ പകർപ്പുകളും പൂർത്തിയായിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ പൂർത്തിയായതായി പറയുന്ന ഈ സന്ദേശം നിങ്ങൾ കാണും നിങ്ങൾ ഇപ്പോൾ റീസ്റ്റാർട് പുനരാരംഭിക്കുക ബട്ടണിൽ ക്ലിക്കുചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ വെർച്വൽ മെഷീൻ പുനരാരംഭിക്കുമ്പോൾ അത് ചില സന്ദേശങ്ങൾ കാണിക്കും ഇത് ആദ്യം ഓഫ് ചെയ്യും അത് വീണ്ടും ഓണാകും നിങ്ങളുടെ ഉബുണ്ടു 14 04 ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറായി ഡെസ്ക്ടോപ്പ് പതിപ്പ് ഉബുണ്ടു ടെർമിനൽ ഉപയോഗിക്കുന്നതും പൈത്തൺ ഉബുണ്ടു എന്നിവ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കും